ഹലോ എല്ലാവർക്കും സ്വാഗതം ഞാൻ ക്യോട്ടോ യൂണിവേഴ്സിറ്റിയിലെ ഡിസാസ്റ്റർ പ്രിവൻഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ശുഭജ്യോതി സമദ്ദർ ആണ് ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക് ബെറ്റർ എന്ന ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാഷണത്തിൽ ഡിസാസ്റ്റർ റിസ്ക് കമ്മ്യൂണിക്കേഷനിലെ ഉറവിടം സന്ദേശം റിസീവർ എന്നിവയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും പ്രത്യേകിച്ച് ഞങ്ങൾ പ്രത്യേക റിസ്ക് ആശയവിനിമയ മാതൃക സ്വീകരിക്കുമ്പോൾ അവിടെയുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നും സംസാരിക്കും ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെന്റ് മനസ്സിലാക്കുക എന്നത് ഞങ്ങൾക്ക് വളരെ പ്രധാനമാണ് റിസ്ക് കമ്മ്യൂണിക്കേഷന്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഒരുതരം സംഭവമാണെന്ന് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം അവിടെ രണ്ട് പാർട്ടികളുണ്ട് ഒരാൾ സ്വീകർത്താവ് മറ്റൊരാൾ ഒരാൾ അയച്ചയാൾ മറ്റൊരാൾ സ്വീകരിക്കുന്നവൻ ഇപ്പോൾ അയയ്ക്കുന്നയാൾ ഞങ്ങൾക്ക് അവരുടെ വിവരങ്ങൾ നൽകുക അവരുടെ മനസ്സ് അവരുടെ ധാരണ പെരുമാറ്റം എന്നിവ അയയ്ക്കുക സന്ദേശങ്ങൾ അയയ്ക്കുക കൂടാതെ സ്വീകർത്താവും അയയ്ക്കുന്നവരും തമ്മിലുള്ള ഈ വിവര കൈമാറ്റം യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യബോധമുള്ള വിവര കൈമാറ്റമാണ് അതിനർത്ഥം അവർ മനസ്സ് മാറ്റാൻ ആഗ്രഹിക്കുന്നു അയയ്ക്കുന്നവർ സ്വീകരിക്കുന്നവരുടെ മനസ്സ് മാറ്റാൻ ആഗ്രഹിക്കുന്നു അയക്കുന്നവർ സംസാരിക്കുന്നു സ്വീകരിക്കുന്നയാൾ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല അത് ലക്ഷ്യബോധത്തോടെയുള്ള വിവര കൈമാറ്റമാണ് അതിനാൽ താൽപ്പര്യമുള്ള കക്ഷികൾ തമ്മിലുള്ള ആരോഗ്യം ദുരന്തം പാരിസ്ഥിതിക അപകടസാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള ഏതെങ്കിലും ഉദ്ദേശ്യത്തോടെയുള്ള വിവരങ്ങൾ കൈമാറുന്നതായി റിസ്ക് ആശയവിനിമയം നിർവചിക്കപ്പെടുന്നു ഇപ്പോൾ അപകട സന്ദേശം മനസ്സിലാക്കുന്നു വിവരങ്ങൾ അയയ്ക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ അത് നോക്കേണ്ടതുണ്ട് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറെടുക്കാൻ ദുരന്തങ്ങൾക്കെതിരെ തയ്യാറെടുക്കാനുള്ള അവരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്വീകർത്താവിന് ഞങ്ങൾ വിവരങ്ങൾ അയയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഫലപ്രദമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് വളരെ സാധാരണമായ ഒരു മാതൃകയുണ്ട് വളരെ ജനപ്രിയമായ മോഡൽ റിസ്ക് കമ്മ്യൂണിക്കേഷനിൽ 1940 കളിൽ വികസിപ്പിച്ചെടുത്ത റിസ്ക് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന മോഡലാണിത് ഉറവിട സന്ദേശ റിസീവർ മോഡൽ ആശയവിനിമയ പഠനങ്ങളുടെ ഏറ്റവും പ്രചാരമുള്ള ചട്ടക്കൂട് ഇപ്പോഴും ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു കുറഞ്ഞത് 50 എങ്കിലും ഈ മോഡൽ ഉപയോഗിക്കുന്നു ഈ മാതൃക എന്താണ് പറയുന്നത് അയക്കുന്നയാൾ അവർ ചില ശാസ്ത്ര സ്ഥാപനങ്ങളിൽ നിന്നോ കാലാവസ്ഥാ വകുപ്പിൽ നിന്നോ ജലശാസ്ത്ര വകുപ്പിൽ നിന്നോ ദുരന്തങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നു തുടർന്ന് ഇത് റിസ്ക് വിവരങ്ങൾ ശേഖരിച്ചു ഒരു തരത്തിലുള്ള വിവരങ്ങളോ അപകടസാധ്യതയെക്കുറിച്ചുള്ള വിശകലനമോ വികസിപ്പിക്കുന്നതിന് അയച്ചയാൾ ഈ വിവരങ്ങൾ ശേഖരിക്കുന്നതിനെ അടിസ്ഥാനമാക്കി സ്വീകരിക്കുന്നവരുടെ മനസ്സും മനോഭാവവും പെരുമാറ്റവും മാറ്റുന്നതിനായി ഈ വിവരങ്ങൾ അവരുടെ സ്വീകർത്താക്കൾക്ക് വിതരണം ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ അവർക്ക് നേരിട്ട് അയയ്ക്കാൻ കഴിയില്ല അയയ്ക്കുന്നയാൾക്ക് മിക്കപ്പോഴും അത് സ്വീകരിക്കുന്നയാൾക്ക് നേരിട്ട് അയയ്ക്കാൻ കഴിയില്ല ചിലപ്പോൾ സാധ്യമാണ് പക്ഷേ മിക്ക സമയത്തും ശാസ്ത്രീയ ബോഡിയിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ ശാസ്ത്രീയ വിശകലനം നടത്തുന്നവർക്ക് സന്ദേശം അയയ്ക്കുന്നത് ബുദ്ധിമുട്ടാണ് അവർക്ക് ഈ വിവരങ്ങൾ നേരിട്ട് സ്വീകർത്താവിന് കൈമാറാനും കഴിയില്ല അയക്കുന്നവർ എന്തുചെയ്യുന്നു അവർക്ക് കുറച്ച് ട്രാൻസ്മിറ്റർ ഉണ്ട് പൊതുവേ അത് ടെലിവിഷനുകൾ റേഡിയോകൾ പത്രങ്ങൾ തുടങ്ങിയ ബഹുജന മാധ്യമങ്ങളാകാം ഞങ്ങൾ അവയെ മാസ് മീഡിയ എന്ന് വിളിക്കുന്നു അയച്ചയാൾ ഈ വിവരങ്ങൾ ട്രാൻസ്മിറ്ററിലോ മാസ് മീഡിയയിലോ മറ്റ് ചില ട്രാൻസ്മിറ്ററുകളിലോ അയയ്ക്കുമ്പോൾ ആ സന്ദേശം മനസ്സിലാക്കുന്നതിനായി അവർ കോഡിംഗും ഡീകോഡിംഗും ചെയ്യുന്നു അവർ യഥാർത്ഥ ഉറവിടത്തിൽ നിന്നുള്ള സന്ദേശം ട്രാൻസ്മിറ്റർ ഡീകോഡിഫൈ ചെയ്തതിന് ശേഷം ആ സന്ദേശം വ്യാഖ്യാനിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു അവർ അത് റിസീവറിന് അയയ്ക്കുകയും റിസീവർ ഈ സന്ദേശം ഡീകോഡ് ചെയ്യുകയും ഡീകോഡിഫൈ ചെയ്യുകയും വീണ്ടും ക്രോഡീകരിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇടയിൽ അത് നേരിട്ട് അവരിലേക്ക് പോകുന്നില്ല അതിനിടയിലാണ് ശബ്ദം വെല്ലുവിളിയാകുന്നത് ഇപ്പോൾ അവനും ഉണ്ട് റിസീവർ ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന ഈ സന്ദേശം ഡീകോഡ് ചെയ്യുകയും റീകോഡ് ചെയ്യുകയും ചെയ്യുന്നു ഇവിടെയും ശബ്ദത്തെക്കുറിച്ചുള്ള ചോദ്യo വെല്ലുവിളിയാകുന്നു എന്താണ് ശബ്ദം ഇത് ചില ബാഹ്യവും ആന്തരികവുമായ ഘടകങ്ങളാകാം കാറിന്റെ ബീപ്പ് അല്ലെങ്കിൽ ശബ്ദ മലിനീകരണം പോലുള്ള ബാഹ്യ ഘടകങ്ങൾ നിങ്ങൾ എങ്ങനെയിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ അവിടെ ധാരാളം ശബ്ദങ്ങൾ ഉള്ളതിനാൽ നിങ്ങൾ അത് ശരിയായി കേൾക്കുന്നില്ല അവിടെയുള്ള ബൈക്കുകൾ അല്ലെങ്കിൽ ധാരാളം കാറുകൾ ബീപ്പ് മുഴങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് തലവേദനയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾവിക്കുറവോ ഉണ്ടാകാം അതിനാൽ അയയ്ക്കുന്നവരെയും സ്വീകരിക്കുന്നവരെയും അവർ വെല്ലുവിളിക്കുന്നു അവർ ശബ്ദവുമായി ആശയവിനിമയം നടത്തുമ്പോൾ ഈ ശബ്ദം ആന്തരികവും ബാഹ്യവുമാകാം ഇപ്പോൾ മെറ്റീരിയോളജി അല്ലെങ്കിൽ ഹൈഡ്രോളജി പോലുള്ള ചില ഓർഗനൈസേഷനുകളിൽ നിന്ന് അയക്കുന്നവർ വിവരങ്ങൾ ശേഖരിക്കുന്നു തുടർന്ന് അവർ ഡീകോഡ് ചെയ്ത് റീകോഡിംഗിന് ശേഷം ഈ വിവരങ്ങൾ മാസ് മീഡിയ പോലുള്ള ട്രാൻസ്മിറ്ററിലേക്ക് കൈമാറി തുടർന്ന് അവർ അത് റിസീവറിലേക്ക് അയയ്ക്കുന്നു കൂടാതെ ഇവ ഡീകോഡിംഗിലൂടെയും റീകോഡിംഗിലൂടെയും ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് പോകുന്നു ഇപ്പോൾ ട്രാൻസ്മിറ്റർ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ഇത് യഥാർത്ഥ അയച്ചവർക്കും സ്വീകരിക്കുന്നവർക്കും ഫീഡ്ബാക്ക് ചെയ്യുന്നു അവർക്ക് ചില ചോദ്യങ്ങളും ആശങ്കകളും ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ അയച്ചവർക്ക് ഫീഡ്ബാക്ക് നൽകാനും അവർക്ക് കഴിയും എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ പ്രക്രിയയാണ് ഒരിക്കൽ നിങ്ങൾക്ക് ലഭിച്ചാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾ ബന്ധപ്പെടുന്നത് വൺ ടു വേ കമ്മ്യൂണിക്കേഷൻ അല്ല പരസ്പരമുള്ള പ്രക്രിയ പൊതുവെ വൺ വേ ട്രാഫിക്കും വിവരങ്ങളുടെ ഒഴുക്കുമാണ് ഇപ്പോൾ അയച്ചവർ ആരാണ് അയയ്ക്കുന്നവർ പൊതുവെ സയൻസ് കമ്മ്യൂണിറ്റികൾ ആയിരിക്കാം ഉദാഹരണം കാലാവസ്ഥാ ഏജൻസികൾ അല്ലെങ്കിൽ NIDM പോലെയുള്ള പൊതു ഏജൻസികൾ ആകാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ചില മുനിസിപ്പൽ അതോറിറ്റികളോ ചില താൽപ്പര്യ ഗ്രൂപ്പുകളോ ആകാം അവർ അയക്കുന്നവരാകാം അല്ലെങ്കിൽ ദൃക്സാക്ഷി അഥവാ വീക്ഷിക്കുന്നവരാകാം ഞാൻ ചില ദുരന്തങ്ങൾ അനുഭവിക്കുന്നു അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് സാധ്യമാണെന്ന് ഞാൻ അറിയിക്കുന്നു അതിനാൽ ഇത് എല്ലായ്പ്പോഴും അങ്ങനെയല്ല എന്നാൽ ശാസ്ത്ര സമൂഹങ്ങൾ പൊതു ഏജൻസികൾ താൽപ്പര്യമുള്ള സംഘം ദൃക്സാക്ഷികൾ എന്നിവരെല്ലാം വിവരങ്ങൾ അയയ്ക്കുന്നവരാകാം ശരി ഇപ്പോൾ അവർ ഈ വിവരങ്ങൾ ട്രാൻസ്മിറ്ററിലേക്ക് അയയ്ക്കുന്നു അവർ അത് എങ്ങനെ അയയ്ക്കും അവർ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നു അവരുടെ ശാസ്ത്ര ജേണലുകൾ അല്ലെങ്കിൽ അവർ ചില പത്രക്കുറിപ്പുകൾ നടത്തിയേക്കാം ശരിയാണ് അവർ ഒരു പ്രത്യേക അപകടങ്ങളെ കുറിച്ചും പ്രത്യേക സംഭവങ്ങളെ കുറിച്ചും പ്രസ് റിലീസ് ചെയ്യുന്നു കൂടാതെ അവർക്ക് വ്യക്തിപരമായ ഇടപെടലുകളിലൂടെ വിവരങ്ങൾ പങ്കിടാനും കഴിയും അതിനാൽ ഇത് എല്ലായ്പ്പോഴും അങ്ങനെയല്ല എന്നാൽ ശാസ്ത്ര സമൂഹങ്ങൾ പൊതു ഏജൻസികൾ താൽപ്പര്യമുള്ള സംഘം ദൃക്സാക്ഷികൾ എന്നിവരെല്ലാം വിവരങ്ങൾ അയയ്ക്കുന്നവരാകാം ശരി ഇപ്പോൾ അവർ ഈ വിവരങ്ങൾ ട്രാൻസ്മിറ്ററിലേക്ക് അയയ്ക്കുന്നു അവർ അത് എങ്ങനെ അയയ്ക്കും അവർ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നു അവരുടെ ശാസ്ത്ര ജേണലുകൾ അല്ലെങ്കിൽ അവർ ചില പത്രക്കുറിപ്പുകൾ നടത്തിയേക്കാം ശരിയാണ് അവർ ഒരു പ്രത്യേക അപകടങ്ങളെ കുറിച്ചും പ്രത്യേക സംഭവങ്ങളെ കുറിച്ചും പ്രസ് റിലീസ് ചെയ്യുന്നു കൂടാതെ അവർക്ക് വ്യക്തിപരമായ ഇടപെടലുകളിലൂടെ വിവരങ്ങൾ പങ്കിടാനും കഴിയും അവ ടിവി പത്രങ്ങൾ റേഡിയോകൾ എന്നിങ്ങനെയുള്ള മാധ്യമങ്ങൾ ആകാം അല്ലെങ്കിൽ ചില പൊതുസ്ഥാപനങ്ങൾ ആകാം ശരി അല്ലെങ്കിൽ ചില അഭിപ്രായ ഗ്രൂപ്പുകളായിരിക്കാം സമാന ചിന്താഗതിക്കാരായ ആളുകൾ അത് സ്വീകരിക്കുന്നവർക്ക് കൈമാറുന്നു ശരി അവർ ഈ വിവരങ്ങൾ സ്വീകരിക്കുന്നവർക്ക് കൈമാറുന്നു അവർ അത് എങ്ങനെ കടന്നുപോകും അവർക്ക് വാർത്തകൾ പ്രസിദ്ധീകരിക്കാനോ വാർത്തകൾ പ്രക്ഷേപണം ചെയ്യാനോ ചിലർക്ക് SMS പോലുള്ള സന്ദേശങ്ങൾ അയയ്ക്കാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദുരന്തത്തെക്കുറിച്ചുള്ള ചില വാർത്താക്കുറിപ്പുകൾ അയയ്ക്കാനും കഴിയും അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ പോലെയുള്ള ചില വ്യക്തിഗത ഇടപെടലുകൾ അപകടസാധ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറുന്നു ശരി റിസീവറിലേക്ക് ആരാണ് ഈ റിസീവറുകൾ ആർക്കാണ് ഈ വിവരങ്ങൾ ലഭിക്കുന്നത് അവർ സാധാരണക്കാരാണ് അല്ലെങ്കിൽ അവർ ഒരു പ്രത്യേക ടാർഗെറ്റ് പ്രേക്ഷകരായിരിക്കാം ചില മുനിസിപ്പൽ അധികാരികൾ ചിലപ്പോൾ മണ്ണിടിച്ചിലിന് വിധേയരായ ഭൂകമ്പത്തിന് വിധേയരായ ചുഴലിക്കാറ്റിന് വിധേയരായ ചില പ്രത്യേക ആളുകളെയാണ് ലക്ഷ്യമിടുന്നത് ഒഴിപ്പിക്കൽ ഉത്തരവ് മുന്നറിയിപ്പ് വിവരങ്ങൾ അവർക്ക് കൈമാറിക്കൊണ്ട് ഒഴിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി പൊതുവായിരിക്കാം പൊതുജനമായിരിക്കാം പക്ഷേ അവരിൽ ഞങ്ങൾ പ്രത്യേക ടാർഗെറ്റ് പ്രേക്ഷകരായിരിക്കാം നമുക്കുള്ളത് അല്ലെങ്കിൽ അപകടസാധ്യതയുള്ളവർ ആരോ അവരാണ് ഇതിന്റെ സ്വീകർത്താക്കൾ ഇപ്പോൾ സന്ദേശത്തിന്റെ ഉറവിടം അങ്ങനെ അയയ്ക്കുന്നവരിൽ നിന്ന് ട്രാൻസ്മിറ്ററിലേക്ക് ഡീകോഡ് ചെയ്ത് റീകോഡ് ചെയ്ത് വീണ്ടും ഡീകോഡ് ചെയ്ത് റീകോഡ് ചെയ്ത് റിസീവറിലേക്ക് വരുന്നു ആശയവിനിമയത്തിന്റെ ആദ്യ ഘട്ടം ഒരു വിവര സ്രോതസ്സ് മുഖേനയുള്ള സന്ദേശത്തിന്റെ ഫ്രെയിമിംഗ് ആണ് അതിനാൽ അയയ്ക്കുന്നവർ ആദ്യം തന്നെ അവർ ശേഖരിച്ച വിവരങ്ങൾ ഫ്രെയിം ചെയ്യുന്നു അയക്കുന്നവർ ആരാണ് എന്നത് വളരെ പ്രധാനമാണ് ആരാണ് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അയയ്ക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് കാരണം അവരു തന്നെയാണ് സന്ദേശം ഫ്രെയിം ചെയ്യുന്നത് അതിനാൽ വിശ്വാസത്തിന്റെയും ക്രെഡിബിലിറ്റിയുടെയും ഒരു ചോദ്യമുണ്ട് കൂടാതെ സന്ദേശത്തിന്റെ ഘടകം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അവയ്ക്കെല്ലാം സന്ദേശം ആംപ്ലിഫയ് ചെയ്യാനും മാഗ്നിഫയ ചെയ്യാനും റീക്കൺസ്ട്രക്ട് ചെയ്യാനും ഡീക്കൺസ്ട്രക്ട് ചെയ്യാനും കഴിയും ഞാൻ നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ കാണിക്കാം എന്ത് സംഭവിക്കാം ഇപ്പോൾ ഈ ആണവ നിലയത്തിലേക്ക് നോക്കുക വിവരങ്ങൾ അയച്ചവരുടെ ഉറവിടം ഈ കമ്പനിയാണെങ്കിൽ ആ കമ്പനി റേഡിയേഷൻ അപകടസാധ്യതയുള്ളതായിരിക്കും സംഭവം ഒന്നുതന്നെയാണെങ്കിൽ ആളുകൾ അവരെ വിശ്വസിക്കും അല്ലെങ്കിൽ റേഡിയേഷന്റെ അവസ്ഥ എന്താണെന്ന് ഒരു കൂട്ടം നൊബേൽ സമ്മാന ജേതാക്കൾ റിപ്പോർട്ട് ചെയ്യുന്നു അയയ്ക്കുന്നവർ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് അടിസ്ഥാനപരമായി ഞങ്ങൾ റേഡിയേഷൻ സ്റ്റാറ്റസ് റിപ്പോർട്ട് നൽകുന്നു ഒന്ന് ഏതു കമ്പനിയെയാണോ അഫക്ട് ചെയ്തത് അത് തന്നെ മറ്റൊന്ന് നൊബേൽ സമ്മാന ജേതാക്കളുടെ ഗ്രൂപ്പാണ് തീർച്ചയായും ആളുകൾ ഈ നൊബേൽ സമ്മാന ജേതാക്കളെ കൂടുതൽ എളുപ്പത്തിൽ വിശ്വസിക്കും കാരണം ഈ കമ്പനി വിവരങ്ങൾ കെട്ടിച്ചമയ്ക്കുകയോ അടിച്ചമർത്തുകയോ കഥകൾ ഉണ്ടാക്കുകയോ ചെയ്യുകയാണെന്നും അല്ലാതെ ജനങ്ങൾക്ക് ശരിയായ വിവരങ്ങൾ നൽകുന്നില്ല എന്നും അവർ കരുതുന്നു അതിനാൽ സംഭവം ഒന്നുതന്നെയാണെങ്കിലും ഉറവിടങ്ങൾ വ്യത്യസ്തമാണ് അതിനാൽ ആളുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല സ്വന്തം ആളുകളുടെ വിശ്വാസം ആരാണ് വിവരങ്ങൾ നൽകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് വളരെ പ്രധാനമാണ് ഉദാഹരണത്തിന് ഈ എണ്ണ ശുദ്ധീകരണശാലകൾ ഒരു പ്രത്യേക ഫാക്ടറിയിൽ നിന്ന് ഒരു പ്രത്യേക രാസവസ്തുവാണ് രണ്ട് വർഷമായി സംഭരണി മാലിന്യത്തിൽ ഒഴുകുന്നത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ട്രാൻസ്മിറ്റർ എത്ര വ്യത്യസ്തമായി ആയിരിക്കും അത് വ്യാഖ്യാനിക്കുന്നത് രണ്ട് വർഷമായി മാലിന്യ സംഭരണിയിൽ നിന്ന് ഒരു പ്രത്യേക രാസവസ്തു ചോർന്നൊലിക്കുന്നതാണ് സംഭവം ഒരുപക്ഷേ എല്ലാ പത്രപ്രവർത്തകരും ഒരേ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ശരിയല്ല അവർ പൊതുവെ അത് ചെയ്യാറില്ല നമുക്ക് നോക്കാം ഹൈടെക് പാർക്കിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ചോർച്ച എന്ന് ജേണലിസ്റ്റ് 1 റിപ്പോർട്ട് ചെയ്തു എന്നാൽ ജേണലിസ്റ്റ് 2 റിപ്പോർട്ട് ചെയ്തത് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് രാസവസ്തുക്കൾ നിരീക്ഷിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ ഉദ്വമനം അപ്പോൾ ജേണലിസ്റ്റ് 3 റിപ്പോർട്ട് ചെയ്യുന്നത് വിഷ മാലിന്യ നിക്ഷേപം മൂലമുണ്ടാകുന്ന വായു മലിനീകരണം എന്നായിരിക്കും നമ്മൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും വിഷലിപ്തമാക്കുന്നതായി ജേണലിസ്റ്റ് 4 റിപ്പോർട്ട് ചെയ്യുന്നു അതിനാൽ ഒരേ സംഭവം എന്നാൽ വ്യത്യസ്ത പത്രപ്രവർത്തകർ വ്യത്യസ്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അത് വളരെ രസകരമാണ് റിസ്ക് കമ്മ്യൂണിക്കേഷന്റെ പ്രാഥമിക ഉറവിടം അപകടസാധ്യതയുള്ള ആശയവിനിമയത്തിന്റെ പ്രാഥമിക ഉറവിടം ഇനി പറയുന്നവയാണ് പുകവലി ജനിതകമാറ്റം വരുത്തിയ ഭക്ഷണങ്ങൾ ആർസെനിക് മലിനീകരണം അപകടകരമായ വസ്തുക്കൾ അപകടകരമായ പദാർത്ഥങ്ങളുടെ ജലസേചനം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ സുനാമി എന്നിവയെല്ലാം അപകടകാരങ്ങളാണ് ഇപ്പോൾ ഇത് ജീനോമിക് പോലുള്ള ചില അപകടസാധ്യതകൾക്ക് കാരണമാകും ജനിതകമാറ്റം വരുത്തിയ ഭക്ഷണം കുട്ടികൾക്കും കുട്ടികൾക്കും വളരെയധികം നാശമുണ്ടാക്കും കൂടാതെ ആർസെനിക് ആർസെനിക് മലിനീകരണം ആർസെനിക് മലിനീകരണം ക്യാൻസറിന് കാരണമാകാം അല്ലെങ്കിൽ ഫുകുഷിമ ആണവ അപകടത്തിന്റെ സംഭവങ്ങൾ അതുപോലെ മറ്റ് പല പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നതാണ് ഇപ്പോൾ അടിസ്ഥാനപരമായി ശാസ്ത്ര സമൂഹം ആദ്യത്തെ ഗ്രൂപ്പ് വിവരങ്ങൾ അയയ്ക്കുന്നവർ അടിസ്ഥാനപരമായി എന്താണ് ചെയ്യുന്നത്ഞാൻ പറയുന്നത് ശാസ്ത്രജ്ഞനെക്കുറിച്ചാണ് ശരി അവർ അപകടസാധ്യത വിശകലനം ചെയ്യുന്നു എന്താണ് അപകടങ്ങൾ എന്ത് തെറ്റ് സംഭവിക്കാം സാധ്യമായ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് അത് സംഭവിക്കാനുള്ള സാധ്യത എത്രയാണ് അപകടസാധ്യത സഹിക്കാവുന്നതാണോ അല്ലയോ അതിനാൽ ഈ ആദ്യ പ്രാഥമിക വിശകലനം നടത്തുന്നത് അയക്കുന്നവരാണ് അപകടസാധ്യതയെക്കുറിച്ചുള്ള വിവരങ്ങളുടെ പ്രാഥമിക ഉറവിടം എന്താണ് അവർ റിസ്ക് വിശകലന പാത ചെയ്യുന്നു ഇപ്പോൾ അവരുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി അപകടസാധ്യത കുറഞ്ഞ ഇടത്തരം ഉയർന്ന വളരെ ഉയർന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം ഉയർന്ന എന്നിങ്ങനെ തരം തിരിക്കാം അതിനാൽ അവർക്ക് അവരുടെ സ്വന്തം പാരാമീറ്ററുകളെ അടിസ്ഥാനമാക്കി വ്യത്യസ്തമായ പാരാമീറ്ററുകളിൽ നിന്ന് അപകടസാധ്യത അളക്കാൻ കഴിയും എന്നാൽ ഈ വിവരങ്ങൾ അസംസ്കൃത വിവരങ്ങളായി കണക്കാക്കണമെന്നില്ല അവർ അത് ചെയ്യുന്നത് അവരുടെ സ്വന്തം പിയർ ഗ്രൂപ്പിനുള്ളിൽ പങ്കിടാൻ മാത്രമാണ് പുറത്തുനിന്നുള്ളവരോടല്ല കാരണം പുറത്തുള്ളവരോട് വലിയ ആശങ്കയില്ലാതെ അവർ അത് പങ്കിടുകയാണെങ്കിൽ അത് ധാരാളം അവിശ്വാസത്തിനും തെറ്റിദ്ധാരണകൾക്കും തെറ്റിദ്ധരിപ്പിക്കുന്നതിനും കാരണമാകും അതിനാൽ ഇവിടെ വളരെ നല്ല ഒരു കാർട്ടൂൺ ഉണ്ട് മിക്ക ആളുകളും അവരുടെ അവധിക്കാലത്തെ എങ്ങനെ കാണുന്നു ശാസ്ത്രജ്ഞർ അവരുടെ അവധിക്കാലത്തെ എങ്ങനെ കാണുന്നു ശരി പ്രാദേശികം പോലെ എന്നാൽ 4 മണിക്ക് ഇടിമിന്നൽ അതിനാൽ ശാസ്ത്രജ്ഞർ അപകടസാധ്യത കണക്കാക്കുന്നത് അപകടസാധ്യതയെക്കുറിച്ചുള്ള ശാസ്ത്രീയ വീക്ഷണം അല്ലെങ്കിൽ അപകടസാധ്യതയുടെ വിലയിരുത്തൽ അപകടസാധ്യതയുടെ വിശകലനം അപകടസാധ്യതയെക്കുറിച്ചുള്ള സാധാരണക്കാരുടെ വീക്ഷണം എന്നിവ തമ്മിൽ വ്യത്യാസമുണ്ട് കാലാവസ്ഥാ ആഘാതം മിതമായത് മുതൽ ദുരന്തം വരെ ഇവിടെ മറ്റൊരു നല്ല കാർട്ടൂൺ കൂടിയുണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതല്ലെന്ന് എനിക്ക് സ്വയം പറയാനാവില്ലെന്ന് ആ വ്യക്തി പറയുന്നു കൂടാതെ എന്റെ വീട് കത്തിത്തീരാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട് ഇൻഷുറൻസ് വാങ്ങുന്നത് മൂല്യവത്താണെന്ന് എനിക്ക് പറയാനാവില്ല അതിനാൽ ശാസ്ത്രജ്ഞർ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു സാധാരണക്കാർ എങ്ങനെ നോക്കുന്നു എന്നുള്ളതാണ് അപകടസാധ്യതയുടെ ഒരു തരത്തിലുള്ള നിർമ്മാണം അവർക്ക് അതിനെ വലിയ അളവിൽ റെഡി ആക്കാൻ കഴിയും അതിനാൽ സന്ദേശത്തിന്റെ ഉറവിടം അയയ്ക്കുന്നവർ അവർ ട്രാൻസ്മിറ്ററിലേക്ക് അയയ്ക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ വിവരങ്ങൾ വർദ്ധിപ്പിക്കുകയും വലുതാക്കുകയും ഊന്നിപ്പറയുകയും ചെയ്യുന്നു അതല്ല നിങ്ങൾ കൈമാറുന്ന വിവരങ്ങൾ നേരിട്ട് പോകുക എന്നാൽ അത് മീഡിയയോ മറ്റോ ആണ് അവർ യഥാർത്ഥത്തിൽ ഇത് പ്രിന്റർ ജോടിയായി പരിവർത്തനം ചെയ്യുന്നത് ഇതൊന്ന് വർദ്ധിപ്പിക്കുക ഇത് വലുതാക്കുക തുടർന്ന് ഇത് ഡീകോഡിംഗിലൂടെയും റീകോഡിംഗിലൂടെയും വരുന്നു ശരിയാണ് ശാസ്ത്രമാണ് പ്രാഥമിക ഉറവിടം സ്ഥാപനങ്ങൾക്ക് വ്യത്യസ്ത ഉദ്ദേശ്യങ്ങളും വ്യത്യസ്ത താൽപ്പര്യങ്ങളും ഉള്ളതിനാൽ ഒരൊറ്റ സിഗ്നലിന്റെ വ്യത്യസ്ത ഭാഗങ്ങളും തിരഞ്ഞെടുക്കലും പ്രോസസ്സിംഗും കാണാൻ അവർ ആഗ്രഹിക്കുന്നു ഒരൊറ്റ സന്ദേശത്തിന് വ്യത്യസ്ത അർത്ഥമുണ്ട് അതിനാൽ ഉറവിടം വളരെ വ്യത്യസ്തമാണ് ഉറവിടം ഒന്നാണ് എന്നാൽ ശാസ്ത്രജ്ഞരുടെ ഒരു സമൂഹം അതിനെ നശിക്കുന്ന ഒരു വലിയ വസ്തുവായി അഥവാ ഒരാനയെ പോലെ കാണുന്നു അവർ ഒരു ആരാധകനായതിനാൽ അവർ ഒരു പ്രത്യേക വശം നോക്കുന്നു ചിലർ ആനയുടെ ഒരു പ്രത്യേക ശരീര ഭാഗം ഒരു കയറാണെന്ന് വിചാരിക്കുന്നു എന്നാൽ ആനയുടെ മുഴുവൻ വശവും ആരും നോക്കുന്നില്ല ശരി വ്യാഖ്യാനങ്ങളിലെ ഈ വ്യത്യാസങ്ങൾ താൽപ്പര്യ ഗ്രൂപ്പിനുള്ളിലെ ശാസ്ത്ര വാദങ്ങളിൽ നിന്നുള്ള പ്രതികൂല ശാസ്ത്ര ക്യാമ്പുകളെ പ്രതിഫലിപ്പിക്കുന്നു ശാസ്ത്രജ്ഞൻ പോലും ഒരേ ഡാറ്റയുണ്ടെങ്കിൽ പോലും അവ വ്യത്യസ്ത ഡാറ്റാ സെറ്റിൽ നിന്ന് വരുന്നതുപോലെയുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത് എന്റെ ഡാറ്റ ശരിയോ തെറ്റോ ആണെങ്കിൽ ഞാൻ വിശകലനം ചെയ്യുന്നത് എന്തോ അതും പരിഗണനയിലിരിക്കുകയാണ് ശാസ്ത്രീയ വിശകലനം അവരുടെ കൈവശമുള്ള ആധികാരിക വിവരങ്ങളുടെ കീഴിലാണ് അതിനാൽ നിങ്ങൾ എനിക്ക് നൽകിയ ഡാറ്റ ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളതാണ് വർഷങ്ങളായി ഞാൻ നിങ്ങൾക്ക് തെറ്റായ ഡാറ്റ നൽകുന്നു ഡാറ്റ പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ആദ്യമായി ചോദിക്കുന്നു അതിനാൽ സിംഗിൾ ഫ്ലോ റിസ്ക് കമ്മ്യൂണിക്കേഷന്റെ ഒരു മാതൃകയാണ് ഇത് അയയ്ക്കുന്നവർ ഈ വിവരം ട്രാൻസ്മിറ്ററിന് കൈമാറുന്നു ട്രാൻസ്മിറ്റർ ഡീകോഡിംഗും റീകോഡിംഗും ചെയ്യുന്നു അവർ അത് റിസീവറിന് അയയ്ക്കുമ്പോൾ അവർ വിവരങ്ങൾ ഡീകോഡ് ചെയ്യുകയും റീകോഡ് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ ഇത് നേരിട്ട് പോകുന്നില്ല അതിനാൽ ഈ പ്രക്രിയയ്ക്കിടയിൽ ആംപ്ലിഫിക്കേഷനുകളും മാഗ്നിഫിക്കേഷനുകളും അക്സെന്റ്വാഷനും സംഭവിക്കുന്നു അതിനാൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് അപകടത്തിന്റെ ഗൌരവം അവർ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അവരുടെ സ്വീകാര്യത ശരിയാണെന്ന് മനസ്സിലാക്കുന്നു അതിനാൽ ഈ വ്യക്തിക്ക് മാധ്യമങ്ങളിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അതിനെ ആശ്രയിച്ചിരിക്കുന്നു അയ്യോ ഈ വെള്ളപ്പൊക്കം എനിക്ക് സംഭവിക്കുമോ എന്ന് അവൻ വിചാരിക്കും ഈ മണ്ണിടിച്ചിൽ എനിക്ക് സംഭവിക്കും അത് ഇവിടെ സംഭവിക്കുമോ എന്താണ് സാധ്യത അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എത്രത്തോളം ദുർബലനാണെങ്കിലും എനിക്ക് ഒരു നല്ല വീടുള്ളതിനാൽ ഈ വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ എന്നെ ബാധിക്കില്ല അതിനാൽ ഒരുപക്ഷേ എന്റെ അയൽക്കാരെ ബാധിച്ചേക്കാം എന്നെ ബാധിക്കില്ല അപ്പോൾ എന്താണ് സംഭവിച്ചത് എനിക്ക് എന്താ സംഭവച്ചത് ഞാൻ എത്രത്തോളം ദുർബലനാണ് റിസീവറുകൾക്ക് ഈ ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ് അതിനാൽ സാധ്യതയും കാഠിന്യവും അദ്ദേഹം വിലയിരുത്തും ഇപ്പോൾ സ്വീകർത്താവിന്റെ ധാരണകൾ തകർക്കാൻ ശ്രമിക്കുന്ന അയക്കുന്നവർ അവനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എന്നാൽ അതിനിടയിൽ ധാരണകളുടെ ഒരു ചോദ്യമുണ്ട് അവൻ വിശ്വസിക്കുകയോ അവൾ വിശ്വസിക്കുകയോ ചെയ്താൽ മാത്രമേ സ്വീകർത്താക്കൾ അയക്കുന്നവരെ പിന്തുടരുകയുള്ളൂ അതിനാൽ പ്രതീക്ഷിക്കുന്ന മരണങ്ങളുടെ എണ്ണം ഞങ്ങളുടെ ആശയവിനിമയ സന്ദേശത്തിൽ അത് ഉൾപ്പെടുന്നു അത് എങ്ങനെ എത്രത്തോളം ആളുകളെ ബാധിക്കുന്നു ഇത്രയധികം ആളുകൾ പ്രത്യേക വെള്ളപ്പൊക്കത്തിൽ പെട്ടവരാണ് എന്ന് നമ്മൾ ജനങ്ങളോട് പറയുമ്പോൾ ഇത് അപകടകരമാണെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകുന്നില്ലെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ കാണിക്കുന്നു എന്നാൽ നമ്മൾ അത് പറയുമ്പോൾ കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചുവെന്ന് ആളുകൾ വിശ്വസിക്കാൻ സാധ്യതയുണ്ട് ഇത് അപകടകരമാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാണ് സന്ദേശത്തിന്റെ പ്രാധാന്യവും വളരെ പ്രധാനമാണ് ശരി ആരാണ് ഈ വിവരങ്ങൾ അവർക്ക് അയയ്ക്കുന്നത് അത് എത്ര പ്രധാനമാണ് മറ്റൊന്ന് ദുരന്തസാധ്യതകൾ അപകടസാധ്യത വിലയിരുത്തുന്നതിനായി ആളുകൾ എങ്ങനെയാണ് ദുരന്തസാധ്യതകളെ പരിഗണിക്കുന്നത് ഉയർന്ന സാധ്യത എന്ന് നമ്മൾ പറയുമ്പോൾ 2011 ലെ ജപ്പാൻ ഭൂകമ്പവും സുനാമിയും പോലുള്ള ഉയർന്ന പ്രത്യാഘാതങ്ങൾ സൃഷ്ട്ടിച്ച ദുരന്തങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദുരന്തങ്ങളുടെ കുറഞ്ഞ ഫലം അഥവാ കുറഞ്ഞ പ്രത്യാഘാതങ്ങൾ വരൾച്ച എന്ന് പറയാം ആളുകൾ കൂടുതൽ അപകടസാധ്യതയുള്ളതായി കരുതുന്നത് ഏതാണ് അതാണ് അപകടസാധ്യതയായി സ്വീകരിക്കുക അതിനാൽ ഉയർന്ന സാധ്യതയുള്ള വരൾച്ച ഇത് മിക്കവാറും എല്ലാ വർഷവും അല്ലെങ്കിൽ ഇടയ്ക്കിടെ സംഭവിക്കുന്നു എന്നാണ് എനിക്ക് കുറഞ്ഞ പരിണതഫലങ്ങളാണുള്ളത് ആളുകൾ അത് കുറഞ്ഞ അപകടസാധ്യതയായി കണക്കാക്കുന്നു എന്നാൽ ഇത് കുറഞ്ഞ സാധ്യതയാണെങ്കിൽ 100 വർഷത്തിനുള്ളിൽ സംഭവിക്കാം എന്നാൽ ഉയർന്ന പ്രത്യാഘാതങ്ങൾ അത് കൂടുതൽ അപകടകരമാണെന്ന് ആളുകൾ കരുതുന്നു ഇതാണ് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് കൂടാതെ സന്ദർഭം അപകട സാഹചര്യം ഭയത്തെക്കുറിച്ചുള്ള ധാരണയും വ്യക്തിപരമായ നിയന്ത്രണവുo വ്യാപ്തിയിലും പ്രോബബിലിറ്റിയിലും അത് എനിക്ക് അപകടസാധ്യത നിയന്ത്രിക്കാൻ കഴിയും എനിക്ക് കുറച്ച് നിയന്ത്രനമുണ്ടാവാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം അപ്പോൾ അത് എങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇത് ഒരു വേരിയബിളാണ് മറ്റൊരു വേരിയബിൾ പരിചയമാണ് ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അത് അനുഭവിക്കുകയും ദുരന്തങ്ങൾ ന്യായമായും പങ്കിടുകയും ചെയ്യുന്നുവെങ്കിൽ ആർക്കാണ് പ്രയോജനം ആർക്കാണ് അപകടസാധ്യത അതിനാൽ നിങ്ങൾ ഒരു ആണവ നിലയം പ്രവർത്തിപ്പിക്കുകയായിരുന്നു എന്നതുപോലുള്ള ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് ഓടിപ്പോകാൻ കാരണമായേക്കാം എന്നാൽ അത് ആരുടെയെങ്കിലും അപകടസാധ്യത വർദ്ധിപ്പിക്കും അപ്പോൾ ഏത് ജനം വിശ്വസിക്കും അതിനാൽ ഈ അപകടസാധ്യത സംഭവിക്കുന്നുവെന്ന് ആരെയെങ്കിലും കുറ്റപ്പെടുത്താനുള്ള സാധ്യതയും കാണാം മുനിസിപ്പൽ അധികാരികളാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണം അതിനാൽ ഇത് ഭയാനകമായി കണക്കാക്കിയാൽ ആളുകൾ വിശ്വസിക്കില്ലെന്ന് ആളുകൾ ആഴത്തിൽ വിശ്വസിക്കുന്നു വ്യക്തിപരമായ നിയന്ത്രണം ഉള്ളതിനാൽ ഈ രീതിയിൽ അവർ മനസ്സിലാക്കിയാൽ അവർക്ക് അപകടസാധ്യത നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി കിട്ടും അപ്പോൾ ഇത് ഉയർന്ന അപകടസാധ്യതയുള്ളതായി അവർ കണക്കാക്കുന്നില്ല പരിചയം ആളുകൾ ഇത് പതിവായി അനുഭവിക്കുമ്പോൾ അവർ വിശ്വസിക്കുകയോ അപകടസാധ്യത സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ അവർ കാണുമ്പോൾ അവൻ അപകടത്തിലാണെന്ന് കരുതുക ആരെങ്കിലും അതിൽ നിന്ന് പ്രയോജനം നേടുന്നുണ്ടാവും എന്നാലും ഇത് കൂടുതൽ അപകടകരമാണെന്ന് അദ്ദേഹം കരുതുന്നു ഈ അപകടസാധ്യത സംഭവിക്കുന്നതിന്റെ കാരണത്തെ കുറ്റപ്പെടുത്തുന്നത് കൂടുതൽ എളുപ്പമാകുമ്പോൾ അപകടസാധ്യത സംഭവിക്കുന്നു ആരുടെയെങ്കിലും ഉത്തരവാദിത്തം കൊണ്ടാണ് ദുരന്തം സംഭവിക്കുന്നത് ആളുകൾ ഇത് കൂടുതൽ അപകടസാധ്യതയായി കണക്കാക്കുന്നു അപകടത്തിന്റെ കാരണം ശരിയാണെന്ന് വിശ്വസിക്കുക അത് അന്യായമാണോ ഇക്വിറ്റിയാണോ മറ്റുള്ളവരുടെ ലാഭമാണോ എന്നും ചിന്തിക്കുന്നു അതിനാൽ ഈ എല്ലാ ഘടകങ്ങളും വർദ്ധിക്കുന്നത് അപകടസാധ്യതയുടെ നിലനിൽപ്പിനും സാധ്യതകൾ മനസ്സിലാക്കുന്നതിനും ആളുകളെ സ്വീകാര്യമാക്കും ശരി ലഭ്യത പോലെ ആളുകളുടെ മനസ്സിൽ ഉടനടി വരുന്ന സംഭവങ്ങൾ അവർക്ക് അത് ശരിയാണെന്ന് സങ്കൽപ്പിക്കാൻ കഴിയും ഉയർന്നതും കുറഞ്ഞതുമായ മാനസിക ലഭ്യത അല്ലെങ്കിൽ പ്രാതിനിധ്യം അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതെല്ലാം കൃത്യമായി ഒന്നുതന്നെയല്ല എന്നാൽ സമാനമായ തരത്തിലുള്ള ഇവയെ കൂടുതൽ അപകടസാധ്യതയുള്ളതായി ആളുകൾ കണക്കാക്കുന്നു ഇപ്പോൾ അപകട വിവരങ്ങളുടെ ട്രാൻസ്മിറ്റർ അയച്ചയാൾ എങ്ങനെയാണെന്നും ട്രാൻസ്മിറ്റർ അയച്ചവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നും അപകടത്തിന്റെ ഗൌരവം എന്താണെന്നും ശേഖരിക്കുന്നു ഇപ്പോൾ ഈ ബഹുജന മാധ്യമ സ്ഥാപനങ്ങളും അഭിപ്രായ ഗ്രൂപ്പുകളും റിപ്പോർട്ടിൽ നിന്നും ദൃക്സാക്ഷികളിൽ നിന്നും ജേണൽ ലേഖനങ്ങളിലൂടെ അയച്ചവരിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുന്നു അവർ ശേഖരിച്ച ഡാറ്റകൾ പിന്നീട് അത് റിസീവറുകൾക്ക് കൈമാറുകയും ചെയ്യുന്നു അതിനാൽ ഈ പ്രക്രിയയിൽ അവർ ശേഖരിക്കുകയും വ്യാഖ്യാനിക്കുകയും തുടർന്ന് അത് ജനങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുന്നു അവർ വ്യാഖ്യാനിക്കുകയും നിർമ്മിക്കുകയും പുനർനിർമ്മിക്കുകയും ഡീകോഡ് ചെയ്യുകയും ചെയ്യുന്നു തുടർന്ന് അവർ അത് ജനങ്ങളിലേക്ക് അയയ്ക്കുന്നു അതിനാൽ അപകടസാധ്യതയുടെ മൂല്യം നിർണ്ണയിക്കുന്നതിലും ശക്തിപ്പെടുത്തുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലും യഥാർത്ഥത്തിൽ ട്രാൻസ്മിറ്റർ വളരെ നിർണായക പങ്ക് വഹിക്കുന്നു അതുപോലെ എല്ലാ ദുരന്തങ്ങളും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല യഥാർത്ഥ അപകടങ്ങളുടെ സ്വഭാവവും വ്യാപ്തിയും മിക്ക ട്രാൻസ്മിറ്ററുകൾക്കും മിക്ക മാധ്യമങ്ങൾക്കും ചെറിയ താൽപ്പര്യം മാത്രമാണ് ഇരകളുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് ആ വാർത്തയുടെ അളവ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇരകളുടെ എണ്ണവും അവർക്ക് പരസ്പര ബന്ധമില്ലെന്ന വാർത്തകളുടെ അളവും രണ്ടും ഇത് പ്രതീക്ഷിച്ച മരണസംഖ്യയിലല്ല ശരി താരതമ്യേന ഗുരുതരവും താരതമ്യേന അപൂർവവുമായ അപകടങ്ങളിൽ പൊതുവെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മാസ് മീഡിയ ട്രാൻസ്മിറ്ററാണ് ഉദാഹരണത്തിന് ചെർണോബിൽ പോലെയുള്ള ഒരു നല്ല ഉദാഹരണം ശരിയാണ് ഒരേ സമയം 31 മരണങ്ങളും ടാങ്ഷാൻ ഭൂകമ്പത്തിൽ ഒരേ വർഷം 800000 ആളുകളെ കൊന്നു എന്നാൽ ചെർണോബിലിനെ അപേക്ഷിച്ച് താങ്ഷാൻ ഭൂകമ്പത്തിന്റെ മാധ്യമ കവറേജ് ഒന്നുമില്ല അതിനാൽ റിപ്പോർട്ട് റിസ്ക് വിവരങ്ങളോ അപകട വാർത്തകളോ കൈമാറുന്നതിനുള്ള ട്രാൻസ്മിറ്റർ ആകർഷണീയത നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഇത് സാങ്കേതികമായി പ്രേരിതമായ അപകടമാണെങ്കിൽ പ്രകൃതിദത്ത അപകടങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഈ അപകടമാണെന്ന് ആരെയെങ്കിലും കുറ്റപ്പെടുത്താനുള്ള കൂടുതൽ സാധ്യത അവർ റിപ്പോർട്ട് ചെയ്യും ആരെങ്കിലും കാരണം ആളുകൾ അപകടത്തിലാണ് എങ്കിൽ അപ്പോൾ അത് അവർക്ക് കൂടുതൽ താൽപ്പര്യമുണ്ട് സംഭവസ്ഥലത്ത് നിന്നുള്ള സാംസ്കാരിക അകലം ഉണ്ടാവേണമെന്നത് ആളുകൾക്ക് ഒരിക്കലും ഇത് അനുഭവപ്പെടില്ല വിദൂര സ്ഥലത്ത് തികച്ചും വ്യത്യസ്തമായ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് ദുരന്തം നടക്കുന്നത് അല്ലെങ്കിൽ കവറേജിന്റെ ഒരു നാടകവും സംഘട്ടനവും മാത്രമാണെങ്കിലോ മുമ്പ് ആരും റിപ്പോർട്ട് ചെയ്യാത്ത വളരെ അതുല്യമായ റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ ചൂടേറിയ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ എങ്ങനെയാവും കൂടാതെ വിവരങ്ങളുടെ അന്തസ്സും വളരെ രഹസ്യമായ സ്രോതസ്സുകളിൽ നിന്നാണ് ഇത് ശേഖരിച്ചത് പക്ഷേ വളരെ കർശനമായ പ്രക്രിയകളോടെ ട്രാൻസ്മിറ്റർ പ്രത്യേകിച്ചും അവർക്ക് താൽപ്പര്യമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും വിവിധ കക്ഷികൾക്കിടയിലോ തൽപരകക്ഷികൾക്കിടയിലോ സംഘർഷം ഉണ്ടാകുമ്പോൾ ആ വാർത്ത കൈമാറാൻ അവർക്കും താൽപ്പര്യമുണ്ട് അതിനാൽ അയയ്ക്കുന്നവരേ അയച്ചവരിൽ നിന്ന് അവർ വ്യാഖ്യാനിച്ച് വിവരങ്ങൾ നേടുന്നു തുടർന്ന് അവർ അത് പുനർവ്യാഖ്യാനിച്ച് ആളുകൾക്ക് അയയ്ക്കുന്നു അതിനാൽ അനിശ്ചിതവും സങ്കീർണ്ണവുമായ പ്രക്രിയ ഇതാണ് ഈ ലളിതമായ സോഴ്സ് മാപ്പും സന്ദേശവും റിസീവറുകളും എങ്ങനെയാണ് എന്നും വെല്ലുവിളികളും തടസ്സങ്ങളും എന്താണെന്നും ഉറവിടം എന്താണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് വളരെ നന്ദി